നമസ്കാരം മെക്കാനോബയോളജിയുടെ ആമുഖത്തെക്കുറിച്ചുള്ള നമ്മുടെ ലക്ച്ചറിലേക്ക് സ്വാഗതം അവസാന ക്ലാസ്സിൽ നമ്മൾ ഫോക്കൽ അഡീഷനെക്കുറിച്ച് ചർച്ചചെയ്യാൻ തുടങ്ങിയിരുന്നു അപ്പോൾസെൽ ആകൃതിയെ സ്ഥിരീകരിക്കുന്ന ഘടകങ്ങളാണ് ഫോക്കൽ അഡീഷനുകൾ സെല്ലിന്റെ അകവും പുറം ഭാഗവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചലനാത്മക വസ്തുക്കളാണ് അവ നിങ്ങൾ ഫോക്കൽ അഡീഷനോടുകൂടിയ ഒരു സെൽ വരയ്ക്കുകയാണെങ്കിൽ ഒരു അഡ്ഹെറന്റ് സെല്ലിന് നിങ്ങൾ സാധാരണയായി അഡിഷനുകൾ ഇത് പോലുള്ള കുത്തുകൾ ആയാണ് ചിത്രീകരിക്കുക അപ്പോൾ ഇവയാണ് സെല്ലിൻറെ അഡിഷനുകൾ അതായത് ഫോക്കൽ അഡിഷനുകൾ നിങ്ങൾ സെല്ലുകളുടെ ചിത്രം വയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചയുടെ ദൃശ്യം നോക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ സെല്ലാണെങ്കിൽ ഈ അഡീഷനുകൾ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന ദൃശ്യമാണ് നിങ്ങൾക്ക് ലഭിക്കുക ഞാൻ ഫോക്കൽ അഡീഷനുകൾ വരച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവയിൽ സെല്ലിന്റെ ചുറ്റളവിന്അടുത്തുള്ളവ താരതമ്യേന വലിപ്പമുള്ളതാണ് എന്നാൽ സെല്ലിന്റെ മധ്യഭാഗത്ത് ഉള്ളവയെ ഞാൻ കുത്തുകൾ ആയിട്ടാണ് വരച്ചിട്ടുള്ളത് അതിനാൽ ഫോക്കൽ അഡീഷനുകൾ നൂറിലധികം പ്രോട്ടീനുകൾ ചേർന്നതാണ് ഇവ ചലനാത്മകമായ ഘടനകളാണ് അതിനാലാണ് ഇത് സെല്ലുകളെ ചലിക്കാൻ പ്രാപ്തമാക്കുന്നത് നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ കാൽ മുന്നോട്ട്വയ്ക്കുകയും തുടർന്ന് നിങ്ങളുടെ കാൽ നിലത്തു വയ്ക്കുകയും ചെയ്യുന്നു അത് ഒരു ഫോക്കൽ അഡീഷൻ രൂപീകരിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ നിങ്ങളുടെപ്രതലംവളരെ വഴുതലുള്ള ഒന്നാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഗ്ലാസിനെ പോലെ ഫ്രിക്ഷൻ നൽകാത്തത് ആണെങ്കിലോ നിങ്ങളുടെ അഡീഷനുകൾ ദുർബലമാണ് അതുകൊണ്ടുതന്നെ ഗ്ലാസിൽ കൂടെ നടക്കുക എന്നത് പ്രയാസമാണ് ഫോക്കൽ അഡീഷനുകൾ യഥാർത്ഥത്തിൽ നൂറിലധികം ഇരുനൂറിനടുത്ത് അല്ലെങ്കിൽ അവയിലും അധികം പ്രോട്ടീനുകൾ ഉൾക്കൊള്ളുന്നവയാണ് അതിൻറെ പട്ടിക തുടർന്നുകൊണ്ടേയിരിക്കുന്നു അവയിൽ തന്നെ വലുപ്പത്തിനനുസരിച്ച് വിശാലമായ വിതരണമുണ്ട് അതിനാൽ നിങ്ങൾക്ക് 0 5 മുതൽ 1 മൈക്രോൺ സ്ക്വയർ വേഴ്സസ് 3 മുതൽ 10 മൈക്രോൺ സ്ക്വയർ വരെയോ അവയിലും അധികം വലിപ്പമുള്ളവയോ ആയ അഡീഷനുകൾ ഉണ്ടായിരിക്കാം ഫോക്കൽ അഡീഷനുകൾക്ക് വിവിധ വലുപ്പങ്ങൾ ഉണ്ടെന്ന് ഇത് കാണിക്കുന്നു ഫോക്കൽ അഡിഷനുകളുടെ കടമകൾഎന്തൊക്കെയാണ് തീർച്ചയായും ഇത് സെൽ ആകൃതിക്ക് സ്ഥിരത നൽകുന്നു അല്ലെങ്കിൽ സെല്ലിനെ സ്ഥിരമാക്കുന്നു വെള്ളത്തിൽ നിൽക്കാൻ സാധ്യമല്ല എന്തെന്നാൽ ആ പ്രതലം ഒരുതരത്തിലും പ്രതിരോധിക്കുന്നില്ല അപ്പോൾ സെൽ ആകൃതി സുസ്ഥിരമാക്കുന്നതിന്സെല്ലുകൾ പ്രയോഗിക്കുന്ന സങ്കോചപരമായ ഫോഴ്സുകളെ നിങ്ങളുടെ പ്രതലം പ്രതിരോധിക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ചുറ്റുപാടുകളെ മനസ്സിലാക്കാനോ കാണാനോ സെല്ലുകളെ പ്രാപ്തരാക്കുന്ന സംവിധാനങ്ങളാണ് ഈ അഡിഷനുകൾ സെൽ എങ്ങനെയാണ് കാണുന്നത് ഫോഴ്സുകൾ പ്രയോഗിക്കുന്നതിലൂടെ അതിനാൽ ഈ അഡിഷനുകൾ സെല്ലുകൾ ഫോഴ്സുകൾ പ്രയോഗിക്കുന്ന ബിന്ദുക്കളായിവികസിക്കുന്നു അവ വലിക്കുന്നതിൻറെ ഫോഴ്സുകളോ അല്ലെങ്കിൽ ചുരുങ്ങുന്നതിന് ഫോഴ്സുകളോ ആവാം അവയാണ് സെല്ലുകൾ അനുകൂലമായ ഉപരിതലത്തിൽ വെക്കുമ്പോൾ പ്രതലത്തിൽ ചുളിവുകൾ ഉണ്ടാവുന്നതിന് കാരണം ഫോക്കൽ അഡീഷനുകൾ രണ്ടു ദിശയിലേക്കും ഉള്ള സന്ദേശങ്ങൾക് മധ്യസ്ഥത വഹിക്കും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പുറത്തുനിന്നും അകത്തേക്ക് അതായത് സെൽ വലിക്കുമ്പോൾ അത് ചുറ്റുപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു നിന്ന് അകത്തേക്ക് കൈമാറുന്നു അതല്ലെങ്കിൽ അകത്ത് നിന്ന് പുറത്തേക്ക് ഇത് മിക്കവാറും സെല്ലുകൾ പുറത്തേക്ക് തള്ളുമ്പോൾ ആണ് ഈ രണ്ട് കേസുകളിലും നിങ്ങൾക്ക് ഫോക്കൽ അഡിഷനുകൾ ഉണ്ട് അതിനാൽ ഈ ഫോക്കൽ അഡീഷനുകൾ നിർവ്വഹിക്കുന്ന പ്രവർത്തനങ്ങളുടെ വ്യാപ്തി കണക്കിലെടുക്കുമ്പോൾ ഒരു ഫോക്കൽ അഡീഷനുള്ളിൽ നിരവധി വ്യത്യസ്ത പ്രോട്ടീനുകൾ ഉണ്ടെന്നതിൽ അതിശയിക്കാനില്ല അവയിൽ തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്റെഗ്രിനുകൾ ആണ് ഇന്റഗ്രിനുകൾ ട്രാൻസ് മെംബ്രൻ സന്ധികളായി വർത്തിക്കുന്നു അത് അകം വശത്തെ പുറവുമായി സംയോജിപ്പിക്കുന്ന അതിനാലാണ് അവയെ ഇന്റഗ്രിനുകൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ അവ ECM സൈറ്റോസ്ക്ലെറ്റൽ ബന്ധനങ്ങളുടെസമഗ്രത നിലനിർത്തുന്നു മൃഗങ്ങളുടെ സെല്ലുകളിൽ മാത്രമേ ഇന്റഗ്രിനുകൾ ഉള്ളൂ സെല്ലുകളുടെ പുറം ഭാഗത്ത് ഈ ഇന്റഗ്രിനുകൾ വിവിധ ലിഗാൻഡുകളുമായും അകത്ത് വിവിധ പ്രോട്ടീനുകളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു ഒന്നാമതായി ഫോക്കൽ അഡീഷനുള്ളിൽ തന്നെ ഇന്റഗ്രിനുകളുമായി സമ്പർക്കം പുലർത്തുന്ന അനേകം പ്രോട്ടീനുകളുണ്ട് കൂടാതെ മൈഗ്രേഷൻ ഹോമിയോസ്റ്റാസിസ് തുടങ്ങിയവയിൽ ഇന്റഗ്രിനുകൾ പ്രധാന പങ്ക് വഹിക്കുന്നു അതിനാൽ നിങ്ങൾ ഇന്റഗ്രിനുകളുടെ ഘടന നോക്കുകയാണെങ്കിൽ അവ നോൺ കൊവാലെന്റ ആയിബന്ധിപ്പിച്ചിട്ടുള്ള ഹെറ്ററോഡൈമറുകളാണ് അവയ്ക്ക് ആൽഫ Alpha ∝ ബീറ്റBeta β എന്നീ രണ്ടു ഘടകങ്ങളാണ് ഉള്ളത് അതിനാൽ ഇതിനെ ഹെറ്ററോഡൈമർ എന്ന് വിളിക്കുന്നു കൂടാതെ ഈ ഘടകങ്ങൾ ബാഹ്യ സന്ദേശങ്ങളെ ആശ്രയിച്ച് നോൺ കോവാലന്റ് രീതിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു സജീവമായിരിക്കുമ്പോൾ മാത്രമേ ഈ ഉപ ഘടകങ്ങൾ ഒരുമിച്ച്വരുന്നുള്ളൂ കൂടാതെ ഉപ ഘടകങ്ങളുടെ ഈ കൺഫർമേഷൻ മാറ്റങ്ങൾ സൈറ്റോപ്ലാസം പ്രോട്ടീനുകളെ ബന്ധിപ്പിക്കുന്നതിലൂടെ സന്ദേശങ്ങൾ പകരുന്നതിലേക്ക് നയിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ഇന്റഗ്രിനുകളുടെ വിവിധ കോമ്പിനേഷനുകൾ സാധ്യമാണ് യഥാർത്ഥത്തിൽ 18 ആൽഫയും∝ 8 ബീറ്റ β ഉപ വിഭാഗങ്ങളും നിർണയിക്കപ്പെട്ടുണ്ട് അവ ബന്ധിക്കുന്നതിൻറെതരങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുക ഉദാഹരണത്തിന് കൊളാജനുമായി ബന്ധിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് വിവിധ കോമ്പിനേഷനുകൾ ഉണ്ടാകാം ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് β1 ആണ്തുടർന്ന് ബ്രാക്കറ്റിനുള്ളിൽ α1 α2 α10 α11 എന്നിവയാണ് ഇതിനർത്ഥം സെല്ലുകൾക്ക് α1 β1 α2 β1 α10β1 α11β1 ഉണ്ടായിരിക്കാം എന്നാണ് അതുപോലെ RGD യുമായി ബന്ധിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് വിവിധ കോമ്പിനേഷനുകൾ നടത്താം അതിൽ ഒന്നിൽ നിങ്ങൾക്ക് α5 β1 α8β1 എന്നിവ ഉണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് α5 β3 α5 β5 എന്നിവ ഉണ്ടാകാം ഇന്റഗ്രിനുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിലൊന്ന് രക്തം കട്ടപിടിക്കുന്നതിൽ മധ്യസ്ഥത വഹിക്കുക ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഞാൻ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് പ്ലേറ്റ്ലെറ്റ് അല്ലെങ്കിൽ ധവള രക്താണുക്കളാണ് അവ നീല നിറത്തിലുള്ള സ്പ്രിങ്ങിന് സമാനമായ ഘടനകളാൽ ബന്ധിപ്പിച്ചിരിക്കുന്നു രണ്ട്പ്ലേറ്റ്ലെറ്റ് രണ്ട്വിപരീത അറ്റങ്ങളിൽ വ്യാപൃതമായിട്ടുള്ള ഇവ ഫൈബ്രിനോജൻ ആണ് ഒരു പ്ലേറ്റ്ലെറ്റും ഫൈബ്രിനോജനും തമ്മിലുള്ള സമ്പർക്കത്തിന്റെ ഈ ബിന്ദുവിനെ യഥാർത്ഥത്തിൽ ഒരുഇന്റഗ്രിൻ ആണ് പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നത് α2b β3 ഇന്റഗ്രിൻ ആണ് ഫൈബ്രിനോജനുമായി ബന്ധിച്ചിരിക്കുന്നത് എന്നിരുന്നാലും നിങ്ങൾ RGD എന്ന ഈ പെപ്റ്റൈഡ് ചേർക്കുമ്പോൾ കട്ടപിടിക്കുന്നത്അലിഞ്ഞു പോകുന്നതായി കാണാം അപ്പോൾ ഇതാണ് രക്തം കട്ടപിടിച്ചിരിക്കുന്നത് നിങ്ങൾ ഒരു RGD ചേർക്കുമ്പോൾ അത് വേറിട്ടുപോകുന്നു എന്തുകൊണ്ടാണത് RGD ക്ക്α2b β3 നോടുള്ള അഫിനിറ്റി α2bβ3 ന് ഫൈബ്രിനോജനോട് ഉള്ള അഫിനിറ്റിയെക്കാൾ വളരെ അധികമാണ് അതിൻറെ ഫലമായി മത്സരിച്ചുള്ള അൺ ബൈൻഡിങിന്റെ ഫലമായിരക്തം കട്ടപിടിക്കുന്നത് അലിഞ്ഞ് പോകുന്നു അപ്പോൾഒരർത്ഥത്തിൽ രക്തം കട്ടപിടിക്കുന്നതിൽ ഇന്റെഗ്രിൻ മധ്യസ്ഥത വഹിക്കുന്നു കൂടാതെ ഇന്റെഗ്രിൻ മറ്റനവധി പ്രവർത്തനങ്ങളുടെ കേന്ദ്രവും ആണ് നമുക്ക് മറ്റൊരു ഫോക്കൽ അഡീഷൻ പ്രോട്ടീൻ നോക്കാം ഇതാണ്ടാലിൻ ഫോക്കൽ അഡിഷനുകളിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ആദ്യത്തെ പ്രോട്ടീനുകളിൽ ഒന്നാണിത് യഥാർത്ഥത്തിൽ ഇന്റഗ്രിനുകളെ സജീവമാക്കുന്നതിൽ അവ പങ്കാളികളാണ് അതിനാൽ ടാലിൻ നേരിട്ട് ഇന്റഗ്രിനുകളുമായും ആക്റ്റിൻ സൈറ്റോസ്ക്ലെട്ടനുമായും ബന്ധിച്ചിരിക്കുന്ന എന്നത് അതിശയിക്കാനില്ല ഈ തന്മാത്രകൾ എങ്ങനെ സ്ഥിതിചെയ്യുന്നുവെന്ന് പിന്നീട് നമുക്ക് കാണാം നിങ്ങൾക്ക് ടാലിൻ 1 ടാലിൻ 2 എന്നിങ്ങനെ ടാലിൻറെ രണ്ട്വ്യത്യസ്ത ഐസോഫോമുകൾ ഉണ്ടായിരിക്കാം സെൽ വ്യാപനം അല്ലെങ്കിൽ സെൽ മൃത്യുഎന്നിവയുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ ധർമ്മങ്ങൾ ഇവയ്ക്കുണ്ട് ഇപ്പോൾ ടാലിൻറെ തന്മാത്രയുടെ രസകരമായ ഒരു വശം ഇത് മറ്റൊരു ഫോക്കൽ അഡീഷൻ പ്രോട്ടീൻ അല്ലെങ്കിൽ ഘടനാപരമായ പ്രോട്ടീൻ ആയ വിൻകുലിനുമായി ബന്ധിക്കുന്നു കാണുന്നത് എന്തെന്നാൽ ഫോഴ്സുകളുടെ സാന്നിധ്യത്തിൽ ടാലിൻറെ ഡൊമൈനുകൾ അൺ ഫോൾഡ് ചെയ്യപ്പെടുകയും വിൻകുലിനിന്റെ ബൈൻഡിംഗ് സൈറ്റുകൾ അനാവരണം ചെയ്യുകയും ചെയ്യുന്നു വിൻകുലിൻ ടാലിനുമായി ബന്ധിക്കുന്നഈ റിക്രൂട്ട്മെന്റ് ഫോക്കൽ അഡിഷനുകളെ ശക്തിപ്പെടുത്തുന്നു അപ്പോൾ ഇത് നമ്മളെ വിൻകുലിനിലേക്ക് നയിക്കുന്നു വിൻകുലിൻ 120 കിലോ ഡാൽട്ടൺ ഭാരമുള്ള ഒരു പ്രോട്ടീനാണ് ഇത് ഫോക്കൽ അഡീഷനുകളിൽ പ്രദേശവൽക്കരിച്ചിട്ടുള്ളതും കൂടാതെ ഫോക്കൽ അഡീഷൻ പ്രോട്ടീനുകളായ ആക്റ്റിനുമായി പരസ്പരം പ്രവർത്തിക്കുകയും ചെയ്യുന്നു വിൻകുലിനെ നോക്ക്ഡൌൺ Knock down ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്നത് സെല്ലുകൾ വേഗത്തിൽ ചലിക്കുന്നതായി ആണ് ഇത് സൂചിപ്പിക്കുന്നത് വിൻകുലിൻയഥാർത്ഥത്തിൽ സെല്ലുകളെ അവയുടെ പ്രതലവുമായി ബന്ധിപ്പിക്കുന്നതിനെ നിയന്ത്രിക്കുന്നു അപ്പോൾ നിങ്ങൾ വിൻകുലിൻവർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് സെല്ലുകളുടെ ചലനത്തെ നിരോധിക്കുകയും സെല്ലുകളെ ദൃഢീകരിക്കുകയും അവയുടെ പ്രതലവുമായി കൂടുതൽ ബന്ധിപ്പിക്കുന്നതിലേക്കും നയിക്കും വിൻകുലിൻ ടാലിൻ എന്നിവ കൂടാതെ മറ്റൊരു നിർണായക ഫോക്കൽ അഡീഷൻ പ്രോട്ടീൻ ആണ് പാക്സിലിൻ അപ്പോൾ ഇത് വീണ്ടും ഫോക്കൽ അഡെഷനുകളിൽ പ്രാദേശികവൽക്കരിച്ചിരിക്കുന്നതും ഫോക്കൽ അഡീഷനിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ആദ്യത്തെ പ്രോട്ടീനുകളിൽ ഒന്നും ആണ് എലികളിൽ പാക്സിലിൻ നോക് ഔട്ട് ചെയ്യുമ്പോൾ അവ ചാവുന്നതായാണ് കാണുന്നത് അതിനാൽ അടിസ്ഥാനപരമായി പാക്സിലിൻ നോക് ഔട്ട് എലികൾ ഭ്രൂണാവസ്ഥയിൽ തന്നെ മരണപ്പെടുന്നു ഇതിന് ഒരു കാരണം നിങ്ങൾ പാക്സിലിൻ നോക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഭ്രൂണത്തിൻറെവികാസം സംഭവിക്കുമ്പോൾ മോർഫോജെനെസിസ് തടയപ്പെടുന്നു ഇത് മറ്റ് ഫോക്കൽ അഡീഷൻ പ്രോട്ടീനുകളുമായി പരസ്പരം പ്രവർത്തിക്കുന്നതായി അറിയപ്പെടുന്നു കൂടാതെ ചില സാഹചര്യങ്ങളിൽ ഒരു ഫോക്കൽ അഡീഷൻ പ്രോട്ടീൻ ആയിരുന്നിട്ടും പാക്സിലിന് ന്യൂക്ലിയസിലേക്ക് സ്ഥാനം മാറാനും മറ്റ് സന്ദേശ പാതകളെ നിയന്ത്രിക്കാനും കഴിയും നിങ്ങൾ ഇവിടെ കാണുന്നത് FAK എന്നറിയപ്പെടുന്ന തന്മാത്രയാണ് FAK എന്നത് മറ്റൊന്നുമല്ല ഫോക്കൽ അഡീഷൻ കൈനേസ് ആണ് ഇതിന് സെൽ അതിജീവനം വ്യാപനം സങ്കലനം ചലനം എന്നിവയിൽ പ്രധാന പങ്കുണ്ട് കൂടാതെ ഫോക്കൽ അഡീഷൻ കൈനേസ് ഫോക്കൽ അഡീഷനുകളുടെ എണ്ണം നിയന്ത്രിച്ച് സെൽ ചലനത്തെ നിയന്ത്രിക്കുന്നു അപ്പോൾ സംയോജനങ്ങൾ ഒരിക്കൽ ഉണ്ടാവുകയും പിന്നീട് അവ ഒരിക്കലും തകർന്നില്ലെങ്കിൽ സെല്ലിന് മുന്നോട്ട് പോകാൻ കഴിയില്ല അതിനാൽ സംയോജനങ്ങൾക്ക് ഭംഗംഉണ്ടാവേണം അതിന് ഫോക്കൽ അഡീഷൻ കൈനേസ് മധ്യസ്ഥം വഹിക്കുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഒരു സെല്ലിലെ ഫോക്കൽ അഡീഷൻ കൈനെയ്സിന്റെ അളവ് നോക്ക്ഡൌൺ ചെയ്യുകയാണെങ്കിൽ മറ്റ് എല്ലാ പ്രവർത്തനസംവിധാനങ്ങളും അതാത് സ്ഥലങ്ങളിൽ ഉണ്ടെങ്കിലും സെല്ലിന് ചലനാത്മകത കുറവായിരിക്കും രസകരമായ കാര്യം എന്തെന്നാൽ അർബുദം പോലുള്ള രോഗങ്ങളുടെ കാര്യത്തിൽ FAK ക്ക് രോഗത്തിനെ ശക്തിപ്പെടുത്തുന്നതുവഴി പോസിറ്റീവ് പങ്ക് വഹിക്കുകയോഅർബുദത്തെതടയുന്നതുവഴി നെഗറ്റീവ് പങ്ക് വഹിക്കുകയോ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത് വീണ്ടും പാക്സിലിൻസിഗ്നലിംഗ് പ്രോട്ടീനുമായി സംവദിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് പരസ്പരം ബന്ധിക്കുകയും ഇടപഴകുകയും ചെയ്യുന്ന ഈ പ്രോട്ടീനുകളുണ്ട് ഇവയും ഫോക്കൽ അഡീഷൻ കൈനെയ്സുകൾ ആണ് പാക്സിലിനെ ഇന്റഗ്രിൻറെ സന്ദേശക തന്മാത്രകൾ എന്ന് പൊതുവായി വിളിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്റഗ്രിൻ സന്ദേശക തന്മാത്രകളുണ്ട് വിൻകുലിൻ പോലുള്ള ഘടനാപരമായ പ്രോട്ടീനുകളുണ്ട് കൂടാതെ ഈ ഫോക്കൽ അഡിഷനുകളുമുണ്ട് ഒരു സെല്ലിന്റെ ദൃശ്യത്തിൽ നിങ്ങൾ എല്ലായ്പ്പോഴും ഓരോ ഫോക്കൽ അഡിഷനുകളുടെയും അവസാനം അവ ഈ വലിയ സ്ട്രെസ് ഫൈബറുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതായി നിങ്ങൾ കണ്ടേക്കാം ഇവ മറ്റൊന്നുമല്ല സ്ട്രെസ് ഫൈബറുകൾ ആണ് ഇത് രണ്ട് അഡീഷനുകൾ ഒരു റബ്ബർ ബാൻഡ് വഴിപ്രതലത്തിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നതിന്തുല്യമാണ് അപ്പോൾ ഇവ നിങ്ങളുടെ ഫോക്കൽ അഡിഷനുകളാണ് ഇത് നിങ്ങളുടെ സ്ട്രിംഗ് അല്ലെങ്കിൽ സ്ട്രെസ് ഫൈബർ ആണ് നിങ്ങൾക്ക് ഈ സ്ട്രിംഗിൽ ചെലുത്താൻകഴിയുന്ന സമ്മർദ്ദത്തിന്റെ അളവ് ഈ അഡിഷനുകൾ എത്രമാത്രം സമ്മർദ്ദത്തെ പിന്തുണയ്ക്കുമെന്നതിനെ ആശ്രയിച്ച് നിർണ്ണയിക്കുന്നു വളരെയധികം ഫോഴ്സ് പ്രയോഗിക്കുന്ന സെൽ ഇവിടെ ഉണ്ടെങ്കിൽ ഫോഴ്സ് സമതുലിതാവസ്ഥക്ക് അഡിഷനുകൾ സമ്മർദ്ദത്തെ താങ്ങുക ആവശ്യമാണ് അതിനാൽ നിങ്ങൾ സമ്മർദ്ദം വളരെയധികം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഒരു നിശ്ചിത പരിധിക്കപ്പുറം ഫോക്കൽ അഡിഷൻ വേറിട്ടുപോകും ഈ പ്രോട്ടീനുകൾക്ക് പുറമെ നിങ്ങൾക്ക് ചില സൈറ്റോസ്ക്ലെറ്റൽ പ്രോട്ടീനുകൾ ഉണ്ട് ഞാൻ വരച്ച സ്ട്രെസ് ഫൈബറുകളിൽ ആക്റ്റിൻ മയോസിൻ എന്നിവ ഒത്തുചേരുന്നു കൂടാതെ ആക്റ്റിൻ അനുബന്ധ പ്രോട്ടീനുകളിലൂടെ സ്ട്രെസ് ഫൈബറുകളും ഒരുമിച്ച് നിലനിൽക്കുക്കുന്നു ആക്റ്റിൻ അനുബന്ധ പ്രോട്ടീനുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആൽഫ ആക്റ്റിനിൻ α Actinin എന്ന ഈ പ്രോട്ടീൻ ആക്റ്റിനുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രോട്ടീൻ ആണ് ആൽഫ ആക്റ്റിനിൻ α Actinin സെല്ലുകളിൽ ആൽഫ ആക്റ്റിനിൻ α Actinin കൂടാതെ ആക്റ്റിനുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വിവിധ പ്രോട്ടീനുകൾ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആൽഫ ആക്റ്റിനിൻ α Actinin ഉണ്ട് അതിനെ ഞാൻ ആൽഫ എ α A എന്ന്എഴുതാം കൂടാതെ നിങ്ങൾക്ക് ഫിലിമിൻ ഫോർമിൻ തുടങ്ങി മറ്റ് പല പ്രോട്ടീനുകളും ഉണ്ട് അതിനാൽ നിങ്ങൾക്ക് ആക്റ്റിനുകളെ ബന്ധിപ്പിക്കുന്ന നിരവധി പ്രോട്ടീനുകൾ ഉണ്ട് അവ വലുപ്പത്തിലും ആക്റ്റിൻ ശൃംഖലയെ എങ്ങനെ ബന്ധിപ്പിക്കുന്നു എന്നതിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു അനന്തരഫലമായി വ്യത്യസ്ത ആക്റ്റിൻ ഘടനക്ക് അകത്തുള്ളഅവയുടെ സ്ഥാനങ്ങൾ വ്യത്യാസപ്പെടുന്നു നിങ്ങൾക്ക് ആക്റ്റിനിന്റെ 4 വ്യത്യസ്ത ഐസോഫോമുകൾ ഉണ്ട് അവയിൽ രണ്ടെണ്ണം ആൽഫ ആക്ടിനിൻ 2 α actinin 2 ആൽഫ ആക്ടിനിൻ 3 α actinin 3എന്നിവ മാംസപേശി സെല്ലുകളിൽ മാത്രം കാണുന്നവയാണ് ആണ് മറ്റ് രണ്ടെണ്ണം ആൽഫ ആക്ടിനിൻ 1 α actinin 1 ആൽഫ ആക്ടിനിൻ 4 α actinin 4 എന്നിവ മാംസപേശി അല്ലാത്ത സെല്ലുകളിൽ എല്ലാം കാണുന്നു അതിനാൽ ആൽഫ ആക്ടിനിൻ α actininവിവിധ ഇന്റഗ്രിൻ പ്രോട്ടീനുകളുമായി ബന്ധിക്കുന്നതായി കാണുന്നു അവയിൽ ഇന്റഗ്രിൻ വിൻകുലിൻ പി ഐ 3 കൈനാസ് എന്ന സിഗ്നലിംഗ് പ്രോട്ടീൻ സിക്സിൻ എന്നിവഉൾപ്പെടുന്നു ചലനാത്മകതയുമായി ബന്ധപ്പെട്ട് ആൽഫ ആക്ടിനിൻ 1 α actinin 1 ആൽഫ ആക്ടിനിൻ 4 α actinin 4 എന്നിവ വിപരീത ധർമ്മങ്ങൾ കൈകാര്യം ചെയ്യുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് അതിനാൽ നിങ്ങൾ ഫൈബ്രോബ്ലാസ്റ്റ് സെല്ലുകളിലെ ആൽഫ ആക്ടിനിൻ 1α actinin 1 അമിതമായി പ്രയോഗിക്കുകയാണെങ്കിൽ സെല്ലുകളുടെ ചലനാത്മകത കുറയുന്നു ആൽഫ ആക്ടിനിൻ 1 α actinin 1 സെൽ ചലനത്തെ നിയന്ത്രിക്കുന്നു അല്ലെങ്കിൽ സെൽ ചലനത്തെ നെഗറ്റീവ് ആയി നിയന്ത്രിക്കുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു ഇതിനു വിപരീതമായി ആൽഫ ആക്ടിനിൻ 4 α actinin 4സ്തനാർബുദ സെല്ലുകളുടെ ചലനത്തെ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്തനാർബുദ സെല്ലുകളുടെ കാര്യത്തിൽ മാത്രമല്ലമസ്തിഷ്കത്തെ ബാധിക്കുന്ന അർബുദം അഥവാ ട്യൂമർ സെല്ലുകൾ അണ്ഡാശയം സംബന്ധിച്ച അർബുദ സെല്ലുകൾ പാൻക്രിയാസിലെ അർബുദ സെല്ലുകൾ എന്നിവയുൾപ്പെടെ ഒന്നിലധികം വ്യത്യസ്ത അർബുദ സെല്ലുകൾ എന്നിവയുടെ കാര്യത്തിൽ എല്ലാം ഇത് ശരിയാണ് അണ്ഡാശയ അർബുദ സെല്ലുകളിലെ ആക്ടിനിൻറെ തോത്ക്ലിനിക്കൽ ഘട്ടത്തിലും ഹിസ്റ്റോളജി തരത്തിലും നിന്ന് വിഭിന്നമായി ഒരു പ്രോഗ്നോസ്റ്റിക് സൂചകമായി ഉപയോഗിക്കാംഎന്ന്അടുത്തിടെ തെളിയിച്ചിരിക്കുന്നു അതിനാൽ ഈ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ആക്റ്റിനുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രോട്ടീനായ ആൽഫ ആക്ടിനിൻ α Actinins ചലനത്തെ അഥവാ അധിനിവേശത്തെ നിർണായകമായി നിയന്ത്രിക്കുന്നു നമുക്ക് നൂറുകണക്കിന് വ്യത്യസ്ത ഫോക്കൽ അഡീഷൻ പ്രോട്ടീനുകൾ ഉണ്ട് ഒരു ഫോക്കൽ അഡീഷനിൻറെ ചിത്രം നമ്മൾ വളരെ ലളിതമായി ഒരു ബിന്ദു അല്ലെങ്കിൽ ഒരു എലിപ്സ് മാത്രം ആയാണ് വരച്ചത് എന്നാൽ ഇത്രയും അധികം പ്രോട്ടീനുകൾ ഒരൊറ്റഫോക്കൽ അഡീഷനിൽ സ്ഥാപിക്കുമ്പോൾ അവ സ്പേഷ്യലി ഓർഗനൈസു ചെയ്യുന്നതെങ്ങനെയെന്ന് ചോദ്യത്തിലേക്ക് ഇത് നയിക്കുന്നു നിങ്ങൾ ഒരു പെട്ടിയിൽ നൂറ് വ്യത്യസ്ത പ്രോട്ടീനുകൾ ഇട്ടുകഴിഞ്ഞാൽ ആ വസ്തു ഒരു ഫോക്കൽ അഡിഷനായി പ്രവർത്തിക്കുകയില്ല മറ്റ് നിരവധി പ്രോട്ടീനുകളുമായി അവയ്ക്ക് പ്രത്യേക ബന്ധനങ്ങൾ ഉണ്ടാവേണ്ടതിനാൽ അവ പ്രത്യേകമായി പ്രാദേശികവൽക്കരിക്കപ്പെട്ടിരിക്കേണ്ടത് പ്രധാനമാണ് ഫോക്കൽ അഡിഷനിൽ പ്രോട്ടീനുകൾ എങ്ങനെയാണ് പ്രാദേശികമായി സ്ഥിതി ചെയ്യുന്നത് എന്ന ചോദ്യത്തെ നിങ്ങൾ എങ്ങനെയാണ് അഭിമുഖീകരിക്കുക ഫോക്കൽ അഡിഷനെ ത്രിമാനമായ ഒരു വസ്തുവായി ഞാൻ സങ്കൽപ്പിക്കുകയാണെങ്കിൽ ഈ പ്രോട്ടീനുകൾ ഓരോന്നും എവിടെയാണ് സ്ഥിതി ചെയ്യുക നിങ്ങൾ പരമ്പരാഗത ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിയെ ആശ്രയിക്കുകയാണെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയില്ല നിങ്ങൾ ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പി ഉപയോഗിക്കുകയാണെങ്കിൽ കാണാനിടയുള്ള നിരവധി പ്രോട്ടീനുകൾ ഞാനിവിടെ വരയ്ക്കുന്നു ഈ പ്രോട്ടീൻ നിങ്ങൾ ഒരു ചാനലിൽ കണ്ടേക്കാം മറ്റൊരു ചാനലിൽ നിങ്ങൾ ഇത് കണ്ടേക്കാം ഇത് മറ്റൊരു ചാനലിൽ നിങ്ങൾ കണ്ടേക്കാം ഇത് പ്രോട്ടീനുകൾ ഫോക്കൽ അഡീഷനിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു അപ്പോൾ നിങ്ങൾ 3 വ്യത്യസ്ത പ്രോട്ടീനുകൾ ലേബൽ ചെയ്ത 3 വ്യത്യസ്ത ചാനലുകളാണിത് ഇത് വിൻകുലിൻ ആണെന്നും ഇത് ഇന്റെഗ്രിൻ ആണെന്നും ഇത് പാക്സിലിൻ ആണെന്നും നമുക്ക് പറയാം ഈ പ്രോട്ടീനുകളെല്ലാം ഇത്തരത്തിലുള്ള പ്രാദേശികവൽക്കരണം കാണിക്കും അതിനാൽ ഈ ഫോക്കൽ അഡീഷനുള്ളിൽ അവ എങ്ങനെ പ്രത്യേകമായി പ്രാദേശികവൽക്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല ഇതിനുള്ള കാരണം സാധാരണ പരമ്പരാഗത മൈക്രോസ്കോപ്പുകളുടെ റെസലൂഷൻ ഡിഫ്രാക്ഷൻ മൂലം പരിമിതപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ഇതിനെ ഡിഫ്രാക്ഷൻ പരിധി എന്നാണ് വിളിക്കുക റെസല്യൂഷൻ എന്നതിന് നിങ്ങൾ നിർവചിക്കും റെസല്യൂഷൻ ഒരു സ്പെസിമെനിലെ 2 ബിന്ദുക്കൾ വ്യത്യസ്ത വസ്തുക്കളായി നിരീക്ഷകനോ ക്യാമറയ്ക്കോ തിരിച്ചറിയാൻ സാധിക്കുന്ന അവ തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരമായി നിർവചിക്കപ്പെടുന്നു പരസ്പരം അടുത്തടുത്ത് സ്ഥാപിച്ചിരിക്കുന്ന കുറെ അധികം കുത്തുകളെ പ്രതിനിധീകരിക്കുന്ന ഈ ചിത്രത്തിലേക്ക് നോക്കുക നിങ്ങൾ ത്രിമാന രീതിയിൽ വീണ്ടും പ്ലോട്ട് ചെയ്താൽ പോയിന്റ്സ്പ്രെഡ് ഫംഗ്ഷനിൻറെ ഫലമായി ഒരു ബിന്ദു ഈ പ്രത്യേക കേന്ദ്രീകൃത ഘടനയായി ദൃശ്യമാകും ഒരു പീക്ക്ഉള്ള എന്നാൽവളരെ ദൂരം പോകുമ്പോൾ അത് വ്യാപിക്കുകയും ചെയ്യുന്ന ഒരു ത്രിമാന ഹിസ്റ്റോഗ്രാം പോലെയാണ് ഇത് ഇവയെ എയറി ഡിസ്കുകൾ എന്ന് വിളിക്കുന്നു അതിനാൽ 2 പോയിന്റുകൾ താരതമ്യേന അകലത്തിലാണെങ്കിൽ ഉദാഹരണത്തിന് നിങ്ങൾ ഈ ചിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ബിന്ദുവിനെ യഥാർത്ഥ കേന്ദ്രത്തെ പ്രതിനിധീകരിക്കുന്ന 2 സാന്ദ്രതയേറിയ സ്പോട്ടുകൾ ഉണ്ട് ഈ കേസിൽ ബിന്ദുക്കൾ ഇവിടെയും ഇവിടെയും സ്ഥിതി ചെയ്യുന്നതെങ്കിലും അവ ഈകേന്ദ്രീകൃത വൃത്തങ്ങൾപോലെ ആണ് ദൃശ്യമാകുക ചില സാഹചര്യങ്ങളിൽ ബിന്ദുക്കൾ പരസ്പരം അകലെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബിന്ദുക്കൾ തമ്മിൽ വേർതിരിച്ച് അറിയുവാൻ കഴിയും ഇതിനെ റെസല്യൂഷൻ പരിധി എന്ന് വിളിക്കുന്നു ഈ ഹിസ്റ്റോഗ്രാമുകൾ തമ്മിൽ സംയോജിക്കുന്നുണ്ടെങ്കിലും ഈ ബിന്ദുക്കളുടെ കേന്ദ്രം എവിടെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും നിർണയിക്കാൻ സാധിക്കും എന്നാൽ നിങ്ങൾ ഈ പ്രത്യേക ബിന്ദു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 ബിന്ദുക്കൾ തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയില്ല കാരണം അവ പരസ്പരം പൂർണ്ണമായും കൂടിചേർന്നിരിക്കുന്നു അതിനാൽ മിക്ക മൈക്രോസ്കോപ്പുകളുടെയും റെസല്യൂഷൻ പരിധി അഥവാ ഡിഫ്രാക്ഷൻ പരിധി ഏകദേശം ലാംഡ യെ 2 കൊണ്ടു ഹരിക്കുന്നതാണ് എന്ന് പറയാൻ കഴിയും ഇവിടെ ലാംഡ എന്നത് പ്രകാശത്തിന്റെ തരംഗദൈർഘ്യമാണ് അതിനാൽ ഇത് കൃത്യമായ സൂത്രവാക്യം അല്ല പക്ഷേ ഇത് റെസല്യൂഷൻ പരിധി എത്രയായിരിക്കുമെന്നതിനെക്കുറിച്ചുള്ള ഒരു ധാരണ നൽകുന്നു മിക്ക മൈക്രോസ്കോപ്പുകളുടേയും റെസല്യൂഷൻ പരിധി എന്നത് 200 നാനോമീറ്ററുകൾ ആയാണു ക്രമീകരിച്ചിരിക്കുന്നത് അതായത് 200 നാനോമീറ്ററിൽ കുറവുള്ള ഒരു വസ്തു 200 നാനോമീറ്ററുകൾ പോലെ കാണപ്പെടും അതിനാൽ നിങ്ങൾ 10 നാനോമീറ്റർ വലിപ്പമുള്ള ഒരു കണിക എടുത്താലും മൈക്രോസ്കോപ്പിക് ചിത്രം സങ്കൽപ്പിക്കുമ്പോൾ ആ കണത്തിന് 200 നാനോമീറ്റർ ക്രമത്തിന്റെ വീതിയുണ്ടെന്ന് ദൃശ്യമാകും അതിനാൽ ഇതിനർത്ഥം അടുത്തടുത്തായി സ്ഥിതിചെയ്യുന്ന 2 കണികകളുണ്ടെങ്കിൽ അവയെ വേർതിരിച്ച് അറിയുക എന്നത് അസാധ്യമാണ് പ്രോട്ടീനുകളുടെ വലിപ്പക്രമം നാനോമീറ്ററുകളും അല്ലെങ്കിൽ അവയ്ക്കും താഴെയോ ആണ് എന്ന് നമുക്ക് അറിയാം അതിനാൽ ഒരൊറ്റ ഫോക്കൽ അഡീഷനുള്ളിൽ നിങ്ങൾക്ക് 2 പ്രോട്ടീനുകൾ വേർതിരിച്ച് അറിയുവാൻ കഴിയില്ല ഈ പ്രശ്നം ഒഴിവാക്കാൻ ശാസ്ത്രജ്ഞർ സൂപ്പർ റെസല്യൂഷൻ മൈക്രോസ്കോപ്പി എന്ന മറ്റൊരു സാങ്കേതികവിദ്യ കൊണ്ടുവന്നിട്ടുണ്ട് സൂപ്പർ റെസല്യൂഷൻ മൈക്രോസ്കോപ്പിയിലൂടെ നിങ്ങൾക്ക് പ്രോട്ടീനുകളുടെ യഥാർത്ഥ ത്രിമാന സ്ഥാനം കണ്ടെത്താൻ കഴിയും നിങ്ങൾ പ്രാദേശികവൽക്കരണത്തിൻറെ കൃത്യത പരിശോധിച്ചാൽ xy തലത്തിൽ 20 നാനോമീറ്ററും Zദിശയിൽ 10 മുതൽ 15 നാനോമീറ്ററും ആണ് അതിനാൽ പ്രോട്ടീനുകൾ എങ്ങനെയാണ് x y z തലത്തിൽ സ്ഥിതിചെയ്യുന്നതെന്ന് തിരിച്ചറിയാൻ ഇത് നിങ്ങളെ സഹായിക്കും ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ക്ലെയർ വാട്ടർമാൻ സ്റ്റോർ എന്താണ് ചെയ്തത് അവർ ഇന്റഗ്രിൻ പാക്സിലിൻ ഫോക്കൽ അഡെഷൻ കൈനാസ് വിൻകുലിൻ ടാലിൻ ആൽഫ ആക്ടിനിൻ ആക്റ്റിൻ തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കൽ അഡീഷൻ പ്രോട്ടീനുകൾ തിരഞ്ഞെടുത്തു നിങ്ങൾ ഈ പ്രോട്ടീനുകളെ ഫ്ലൂറസന്റ് ലേബൽ ചെയ്യുകയും സൂപ്പർ റെസല്യൂഷൻ മൈക്രോസ്കോപ്പി ഉപയോഗിച്ച് ചിത്രീകരിക്കുകയും ചെയ്യുന്നു വ്യത്യസ്ത തരം സൂപ്പർ റെസല്യൂഷൻ മൈക്രോസ്കോപ്പി ഉണ്ടായിരിക്കാം അവയിൽ ചിലത് ഉദാഹരണത്തിന് PALM STED തുടങ്ങിയവയാണ് സെല്ലുകളെ സൂപ്പർ റെസല്യൂഷനിൽ ചിത്രീകരിക്കുവാൻ കഴിയുന്ന വിവിധ സാങ്കേതിക വിദ്യകളാണ് ഇവ നമുക്ക് പറയാം നിങ്ങളുടെ പക്കൽ ഒരു സൂപ്പർ റെസല്യൂഷൻ മൈക്രോസ്കോപ്പ് ഉണ്ട് ഇതിനർത്ഥം z ദിശയിലെ 10 മുതൽ 15 നാനോമീറ്ററുകൾ വരെയുള്ള വ്യത്യാസങ്ങൾ കണ്ടെത്താനാകുമെന്നാണ് നിങ്ങൾ ഒരു സെൽ എടുക്കുമ്പോൾ ഇത് പ്രതലമാണ് ഇത് നിങ്ങളുടെ സെല്ലാണ് ഞാൻ ഇന്റെഗ്രിനുകൾ വരയ്ക്കാം ഇത് നിങ്ങളുടെ പ്ലാസ്മ മെംബ്രൺ ആണ് അപ്പോൾ ഒരു വശത്തു നിന്നുള്ള ഇതിൻറെ തന്നെ ദൃശ്യം ഒരുപക്ഷേ ഇതുപോലെയാകാം അതിനാൽ ഒരു ദ്വിമാന തലത്തിൽ ഈ ഫോക്കൽ അഡിഷനുകൾ ഇതുപോലെ കാണപ്പെടും നമ്മൾ ഇന്റഗ്രിൻ ഫ്ലൂറസന്റ് ലേബൽ ചെയ്തിട്ടുണ്ടെന്ന് കരുതുക നമുക്ക് ഇവിടെയുള്ള ചെറിയ ഈ കളം എടുക്കാം ഈ കളത്തിൽ z ദിശയിൽ ഇന്റഗ്രൽ സിഗ്നലിംഗ് എങ്ങനെയാണ് വിതരണം ചെയ്യുന്നത് എന്ന ചോദ്യം നമ്മൾ ചോദിക്കുന്നു നിങ്ങൾക്ക് ലഭിക്കുക എന്തെന്നാൽ ഞാൻ ഇത്z ദിശയായി വരച്ചാൽ നിങ്ങൾക്ക് ഒരു വിതരണം ലഭിക്കും കൂടാതെ z ദിശയിൽ ഇന്റഗ്രീന്റെ ശരാശരി എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാകും ഇതിന് സമാനമായി നിങ്ങൾക്ക് ഓരോ പ്രോട്ടീൻ ആയി ലേബൽ ചെയ്യാൻ കഴിയും ഉദാഹരണത്തിന് ഇന്റഗ്രിനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾ പാക്സിലിൻ അല്ലെങ്കിൽ സിക്സിൻ അല്ലെങ്കിൽ FAK ലേബൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സിഗ്നലിംഗ് ലഭിക്കും അതിനാൽ ഇത് FAK അല്ലെങ്കിൽ പാക്സിലിൻ ആയിരിക്കും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതീക്ഷിക്കുന്നത് അത് ഈ ലളിതമായ കാരണത്താലാണ് ഇന്റഗ്രിൻ ഒരു ട്രാൻസ് മെംബ്രൻ പ്രോട്ടീൻ ആണ് ഉപരിതലത്തിൽ നിന്നുള്ള ഒരു ട്രാൻസ് മെംബ്രൻ പ്രോട്ടീനാണ് ഇന്റഗ്രിൻ അതിനാൽ മറ്റെല്ലാ ഫോക്കൽ അഡെഷനുകളെക്കാളും ഉപരിതലവുമായി അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്റഗ്രിൻ ആയിരിക്കണം അതുപോലെ തന്നെ FAK അല്ലെങ്കിൽ പാക്സിലിൻ എന്ന ഈ രണ്ട് പ്രോട്ടീനുകളും ഇന്റഗ്രിനുമായി ബന്ധിപ്പിക്കുന്നതും അതേസമയം അവയ്ക്ക് ട്രാൻസ് മെംബ്രൻ ഡൊമെയ്നുകൾ ഇല്ലാത്തതും ആണ് അവ ഇപ്പോഴും സൈറ്റോസ്ക്ലെറ്റൽ പ്രോട്ടീനുകളാണ് അതിനാൽ അവ ഇന്റഗ്രിനുകൾക്ക് അല്പം മുകളിലായിരിക്കണം ഇതിനു വിപരീതമായി ആക്റ്റിൻ അല്ലെങ്കിൽ ആൽഫ ആക്ടിനിൻ α Actinin ഉള്ളിലായി എന്നാൽ വിശാലമായ പ്രാദേശികവൽക്കരണം ഉണ്ടായിരിക്കണം അതിനാൽ ഇത് ആക്റ്റിൻ അല്ലെങ്കിൽ ആൽഫ ആക്ടിനിൻ α Actininആയിരിക്കും ഇതിനെ അടിസ്ഥാനമാക്കി ക്ലെയർ വാട്ടർമാൻ സ്റ്റോർ കാണിച്ചത് എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു ഇന്റഗ്രിൻ പാളി ഉണ്ട് ആ പാളിക്ക് മുകളിലായി നിങ്ങൾക്ക് FAK അല്ലെങ്കിൽ പാക്സിലിൻ പോലുള്ള പ്രോട്ടീനുകൾ ഉണ്ട് ഇതിനെ ഇന്റഗ്രിൻ സിഗ്നലിംഗ് ലെയർ എന്ന് വിളിക്കുന്നു അതിനുമുകളിൽ ഈ കനമുള്ള ഒരു ഫോഴ്സ് ട്രാൻസ്ഡക്ഷൻ പാളി ഉണ്ട് ഇപ്പോൾ ഫോഴ്സ് ട്രാൻസ്ഡക്ഷൻ പാളിക്കുള്ളിൽ ടാലിൻ എന്ന തന്മാത്ര യഥാർത്ഥത്തിൽ ഇതുപോലെ പ്രാദേശികവൽക്കരിച്ചിരിക്കുന്നു എന്ന് അവർ തെളിയിച്ചു എൻ ടെർമിനൽ പ്രോട്ടീൻ ഇന്റഗ്രിൻ സിഗ്നൽ പാളിയോടും പ്രോട്ടീന്റെ സി ടെർമിനൽ ഇന്റഗ്രിനിൽ നിന്ന് അകന്ന് അവിടെയുള്ള ആക്റ്റിനോട് അടുത്ത കാണപ്പെടുന്നു ഇവിടെ വിൻകുലിനും ഉണ്ടായിരുന്നു ഇതിനു മുകളിൽ ആക്റ്റിൻ ആൽഫ ആക്റ്റിൻα Actin എന്നിവയുണ്ട് അതിനാൽ ഫോക്കൽ അഡീഷനുള്ളിൽ പ്രോട്ടീനുകളുടെ പടി പടി ആയുള്ള ക്രമീകരണം അല്ലെങ്കിൽ പ്രത്യേക പ്രാദേശികവൽക്കരണം ഉണ്ടെന്ന് ഇത് കാണിക്കുന്നു ഇനിപ്പറയുന്ന 2 പേപ്പറുകൾ വായിക്കാൻ ഞാൻനിങ്ങളോട് ആവശ്യപ്പെടുന്നു 2010 നേച്ചറിൽ പ്രസിദ്ധീകരിച്ച ക്ലെയർ വാട്ടർമാൻ പേപ്പർ ആണ് "Kanchanawong et al" മറ്റ് പേപ്പർ Patla et al 2010 നേച്ചർ സെൽ ബയോളജിയിൽ പ്രസിദ്ധീകരിച്ചതുംആണ്